വി എൽ എസ് ഐ ഫിസിക്കൽ ഡിസൈനിനെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച തുടരുന്നു ഈ രണ്ടാം ആഴ്ചയിൽ ചിലത് നോക്കാം ബാക്കെൻഡ് ഡിസൈൻ ലെവലിൽ നിങ്ങൾക്ക് ഡിസൈൻ ഓട്ടോമേഷന്റെ പ്രാരംഭ ഘട്ടങ്ങൾ പറയാം അതായത് ഫ്ലോർ പ്ലാനിംഗ് പ്ലേസ്മെന്റിന്റെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കും അതിനുമുമ്പ് നമുക്ക് സർക്യൂട്ട് പാർട്ടീഷനിംഗ് ആവശ്യമാണ് അതിനാൽ ഈ പ്രക്രിയയുടെ ആദ്യപടിയായ പാർട്ടീഷനെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തോടെ നമ്മൾ നമ്മുടെ ചർച്ച ആരംഭിക്കുന്നു അതിനാൽ പാർട്ടീഷനിങ് പ്രോബ്ളത്തിന്റെ ഈ വ്യാപ്തിയും അതിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്നും വിശദീകരിക്കാൻ നമുക്ക് ആദ്യം ശ്രമിക്കാം അതിനാൽ നമ്മൾ വിഭജനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സിസ്റ്റം ഡിസൈൻ നെറ്റ്ലിസ്റ്റ് എടുക്കുന്നു അത് ട്രാൻസിസ്റ്ററുകളുടെ തലത്തിലോ ഗേറ്റുകളുടെ തലത്തിലോ ഉള്ള ഒരു നെറ്റ്ലിസ്റ്റ് ആകാം അല്ലെങ്കിൽ വാസ്തവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മൊഡ്യൂളുകളും ബ്ലോക്കുകളും അതിനാൽ നമ്മൾ പാർട്ടീഷനിങ്നടത്തുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും സിസ്റ്റത്തെ ചെറുതും കൂടുതൽ കൈകാര്യം ചെയ്യാവുന്നതുമായ ഉപസംവിധാനങ്ങളായി വിഘടിപ്പിക്കുകയാണ് അങ്ങനെ ഓരോന്നും ഉപസംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാനും സ്വതന്ത്രമായി ക്രമീകരിക്കാനും കഴിയും എന്നാൽ ഈ പ്രക്രിയയിൽ തൃപ്തിപ്പെടേണ്ട മാനദണ്ഡങ്ങൾ കുറച്ച് ഉണ്ട് അതിനാൽ ഡികോമ്പോസിഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ഈ പാർട്ടീഷനുകൾ അല്ലെങ്കിൽ ഉപസിസ്റ്റങ്ങൾ തമ്മിലുള്ള കണക്ഷനുകളുടെ എണ്ണം നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് ചുരുക്കണം ഈ ഡികോമ്പോസിഷൻ നമുക്ക് ബ്ലോക്കുകളെ ശ്രേണിപരമായി നിർവഹിക്കാൻ കഴിയും ചെറുതാക്കി ചെറുതാക്കി ഓരോ ബ്ലോക്കുകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ എത്തുന്നതുവരെ സ്വതന്ത്രമായി രൂപകൽപ്പന ചെയ്തത് അതിനാൽ ഒരു വലിയ സംവിധാനത്തിൽ തുടങ്ങി എല്ലാ ഭാഗങ്ങളും കൈകാര്യം ചെയ്യാവുന്ന വലുപ്പമുള്ള ഒരു ഘട്ടത്തിൽ എത്തുന്നതുവരെ നമ്മൾ അതിനെ ചെറിയ ചെറിയ കഷണങ്ങളായി വിഭജിച്ചുകൊണ്ടിരിക്കും അതിനാൽ പാർട്ടീഷനിംഗിന്റെ ഔട്ട്പുട്ട് എന്ന നിലയിൽ ഇന്ഡയുജ്വൽ മൊഡ്യൂൾ നെറ്റ്ലിസ്റ്റുകൾ നമുക്ക് ലഭിക്കും അത്തരത്തിലുള്ള n മൊഡ്യൂളുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം തീർച്ചയായും അവ എങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിനെ നമ്മൾ ഇന്റർഫേസ് ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നു നമുക്ക് നേരത്തെ നോക്കിയ അതേ ഉദാഹരണം നോക്കാം നമ്മൾ ഇവിടെ കാണുന്ന ഈ ഗേറ്റ് ലെവൽ നെറ്റ്ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വിഭജനത്തിന്റെ പ്രശ്നം ചിത്രീകരിക്കുന്നു അതിനാൽ നമുക്ക് 48 ഗേറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു സർക്യൂട്ട് ഉണ്ട് ഈ ഉദാഹരണത്തിൽ അതിനെ എങ്ങനെ 3 ക്ലസ്റ്ററുകളായി അല്ലെങ്കിൽ പാർട്ടീഷനുകളായി വിഭജിക്കാമെന്ന് നമ്മൾ ചിത്രീകരിക്കുന്നു ശരി വ്യക്തമായ ലക്ഷ്യങ്ങളിലൊന്ന് പാർട്ടീഷനുകൾ ഏകദേശം ഒരേ വലുപ്പത്തിലായിരിക്കണം എന്നതാണ് ഈ സാഹചര്യത്തിൽ പാർട്ടീഷനുകളുടെ വലുപ്പം 15 16 17 എന്നിവയാണ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇന്റർകണക്ഷൻ ലൈനിന്റെ എണ്ണം ഞാൻ സൂചിപ്പിച്ചതിനു മറ്റൊരു ആവശ്യമുണ്ട് ന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ടീഷനുകൾക്കിടയിൽ പരസ്പരബന്ധങ്ങളുടെ എണ്ണം 4 ഉം രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർട്ടീഷനുകൾക്കിടയിൽ 4 ഉം ആണ് അതിനാൽ പാർട്ടീഷനുകളിലുടനീളമുള്ള കണക്ഷനുകളുടെ എണ്ണം കുറയ്ക്കുന്നതിന്റെ ഉദ്ദേശ്യവും തൃപ്തികരമാണ് അതിനാൽ ഈ ഉദാഹരണം ഒരു പാർട്ടീഷൻ അല്ലെങ്കിൽ പാർട്ടീഷനിങ് പ്രോസസ്സ് ഒരു നെറ്റ്ലിസ്റ്റിനെ ഒരു ചെറിയ നെറ്റ്ലിസ്റ്റായി എങ്ങനെ വിഭജിക്കണം എന്ന് കാണിക്കുന്നു അതിനാൽ 2 മാനദണ്ഡങ്ങളുണ്ട് ഒന്ന് പാർട്ടീഷനുകൾ ഏകദേശം ഒരേ വലുപ്പത്തിലായിരിക്കണമെന്നും നമ്പർ 2 പാർട്ടീഷനുകൾ തമ്മിലുള്ള കണക്ഷനുകളുടെ എണ്ണം ഏകദേശം തുല്യമായിരിക്കണമെന്നും ആണ് അതിനാൽ വിഭജനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പ്രക്രിയ വിവിധ തലങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സിസ്റ്റം രൂപകൽപ്പന ചെയ്യുമ്പോൾ നമുക്ക് അത് സിസ്റ്റം തലത്തിൽ നടപ്പിലാക്കാൻ കഴിയും മുഴുവൻ സിസ്റ്റം ഡിസൈനും നമുക്ക് ഉപസിസ്റ്റങ്ങളായി വിഭജിക്കാം പക്ഷേ ഓരോ ഉപസിസ്റ്റങ്ങളും ഒരു അച്ചടിച്ച സർക്യൂട്ട് ബോർഡിലേക്ക് മാപ്പ് ചെയ്തേക്കാം നമുക്ക് ഒരു PCB അല്ലെങ്കിൽ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ ബോർഡിന്റെ തലത്തിൽ നമുക്ക് വിഭജിക്കാം അതിനാൽ ബോർഡിനുള്ളിൽ നമുക്ക് നിരവധി ചിപ്പുകൾ ഉണ്ടെന്ന് കാണാം നിങ്ങൾ ഒരു ചിപ്പ് രൂപകൽപ്പന ചെയ്യുമ്പോൾ ഒരു ചിപ്പിനുള്ളിൽ പോലും നിരവധി ബ്ലോക്കുകളോ മൊഡ്യൂളുകളോ ഉണ്ടാകാം അവ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും അതിനാൽ സിസ്റ്റം ലെവലിൽ ബോർഡ് ലെവലിൽ അല്ലെങ്കിൽ ചിപ്പിനുള്ളിൽ ചിപ്പ് ലെവലിൽ പോലും പാർട്ടീഷനിംഗ് നടത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് പറയാം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു വലിയ സിസ്റ്റം ഉള്ളപ്പോൾ സാധാരണയായി മൊത്തം സർക്യൂട്ട് നിരവധി പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകളായി വിഭജിക്കപ്പെടും അതിലൂടെ നമുക്ക് സിസ്റ്റം ലഭിക്കും ഒരു ചിപ്പിനുള്ളിൽ നമ്മൾ 2 പോയിന്റുകൾ ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഡിലെ വളരെ പ്രധാനമാണ് ഡിലെ X ആണെന്ന് കരുതുക എന്നാൽ ഒരു ചിഹ്നത്തിനുള്ളിൽ 2 ചിപ്പുകൾക്കിടയിൽ നിങ്ങൾ കടന്നുപോകുമ്പോൾ ഡി ലെ ഏകദേശം 10 മടങ്ങ് ആകാം പക്ഷേ നമ്മൾ ബോർഡുകളിലൂടെ പോകുമ്പോൾ ഇത് 20 മടങ്ങ് കൂടുതലോ അതിലധികമോ ആകാം അതിനാൽ ഡിലെ മാഗ്നിട്യൂഡിന്റെ ഉയർന്ന അളവിലുള്ള ക്രമമായിരിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻട്രാ ചിപ്പ് റൂട്ടിങ്ങിൽ നിന്ന് ഇൻട്രാ ബോർഡ്സിലേക്കും ബോർഡുകളിലുടനീളവും എന്ന് പറയാം അതിനാൽ നമ്മുടെ പക്കലുള്ള ക്രിട്ടിക്കൽ നെറ്റ്സ് കഴിയുന്നത്രയും കുറഞ്ഞ കാലതാമസമുള്ള പ്രദേശങ്ങളിൽ സ്ഥാപിക്കണം എന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് അതായത് ചിപ്പിനുള്ളിൽ അത് അഭികാമ്യമാണ് അത് സാധ്യമല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചിപ്പുകളിലൂടെ പോകാൻ കഴിയൂ അതിനാൽ ഇവിടെ ഒരു ലളിതമായ ചിത്രീകരണം ഇടതുവശത്ത് ഒരു ബോർഡ് കാണാം ഇത് ഒരു സിസ്റ്റമാണ് 2 ബോർഡുകൾ അടങ്ങുന്ന സിസ്റ്റം എന്ന് നമുക്ക് പറയാം ഈ ബോർഡുകളിൽ ഓരോന്നിലും ചില ചിപ്പുകൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഞാൻ ചില കണക്ഷനുകൾ കാണിക്കുന്നു ഈ ചിപ്പിനുള്ളിലെ ഒരു ബ്ലോക്കും ഈ ചിപ്പിനുള്ളിലെ ഒരു ബ്ലോക്കും തമ്മിലുള്ള കണക്ഷൻ ഇതിന് 10X ഡിലെ നേരിടും അതുപോലെ ഈ B യും അടുത്ത ബോർഡിലെ C യും തമ്മിലുള്ള കണക്ഷൻ 20X ആകാം അതിനാൽ A മുതൽ C വരെയുള്ള മൊത്തം ഡിലെ 10 പ്ലസ് 20 ആകാം എന്നാൽ ഒരു പാർട്ടീഷനിൽ A B എന്നിവ ഇടുകയാണെങ്കിൽ ഒരു ആൾട്ടർനേറ്റ് മാപ്പിംഗിൽ എന്ന് കരുതുക അപ്പോൾ A യും B ഉം തമ്മിലുള്ള കണക്ഷൻ ഡിലെ X മാത്രമായിരിക്കും കൂടാതെ C ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരേ ബോർഡിൽ വയ്ക്കാം അപ്പോൾ B യും C യും തമ്മിലുള്ള ഡിലെ B യും C ഉം തമ്മിലുള്ള ഡിലെ 10 ആകാം അതിനാൽ ഇവിടെ 30X ന് പകരം A യും C യും തമ്മിലുള്ള ഡിലെ 11X ആയി മാറുന്നു അതിനാൽ ഇത് നിങ്ങളെ കാണിക്കുന്നു അതിനാൽ ക്രിട്ടിക്കൽ നെറ്റ്സോ ഹയർ ഡിലെ പാർട്ട്സോ എങ്ങനെ ഒരു ചിപ്പിനുള്ളിലോ ഒരു ബോർഡിനുള്ളിലോ ഇടാം അതിനനുസരിച്ചു ഡിലെ കഴിയുന്നത്ര കുറയ്ക്കാൻ കഴിയും ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ക്രിട്ടിക്കൽ പാത്തുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സിഗ്നൽ പ്രചരിപ്പിക്കാൻ പരമാവധി സമയം എടുക്കുന്ന പാതകൾ ക്രിട്ടിക്കൽ പാത്തുകൾ സാധാരണയായി സർക്യൂട്ടിന്റെ പരമാവധി ഫ്രേക്വീൻസി നിർണ്ണയിക്കുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞ വിധത്തിൽ നമ്മൾ ഒരു ക്രിട്ടിക്കൽ പാത്ത് തകർക്കാനോ സർക്യൂട്ടിന്റെ ഉയർന്ന വേഗതയുള്ള വിഭാഗങ്ങളിലൂടെ ഒരു ക്രിട്ടിക്കൽ പാത്ത് പരിഷ്കരിക്കാനോ ശ്രമിക്കുന്നു അങ്ങനെ നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് ചെറിയ വലിപ്പത്തിലുള്ളതായിത്തീരും എന്നാൽ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം ഇത് ചെയ്യുമ്പോൾ ചിപ്പിനുള്ളിൽ ഉണ്ടായിരുന്ന മറ്റ് ചില പാത്തുകൾ ചിപ്പിലൂടെ കടന്നുപോകുകയും അവയുടെ ഡിലെ പ്രോസസ്സിൽ വർദ്ധിക്കുകയും ചെയ്യും മുമ്പ് ക്രിട്ടിക്കൽ അല്ലാത്ത ചില പാത്തുകൾ ഈ മാറ്റം മൂലം പിന്നീട് ക്രിട്ടിക്കൽ ആകും അതിനാൽ പാർട്ടീഷനിങ് പ്രോബ്ലം നമുക്ക് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ പറയാം ഞങ്ങൾക്ക് ഒരു നെറ്റ്ലിസ്റ്റ് നൽകിയിട്ടുണ്ട് ഈ നെറ്റ്ലിസ്റ്റ് ഒരു ചെറിയ നെറ്റ്ലിസ്റ്റുകളായി വിഭജിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പാർട്ടീഷനുകൾ തമ്മിലുള്ള കണക്ഷനുകളുടെ എണ്ണം കുറയ്ക്കേണ്ടതുണ്ട് പാർട്ടീഷനിങ് മൂലമുള്ള ഡിലെ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് ക്രിട്ടിക്കൽ പാത്ത് ഡിലെ കുറയ്ക്കണം ചുരുങ്ങിയത് ക്ലോക്ക് ഫ്രേക്വീൻസി നിർണ്ണയിക്കുന്ന ക്രിട്ടിക്കൽ സിഗ്നൽ നെറ്റുകളെങ്കിലും ഓരോ ചിപ്പിനും ബോർഡിനും സാധാരണയായി നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഇന്റർ കണക്റ്റിംഗ് ടെർമിനേറ്റുകളുടെ എണ്ണത്തിന് ഒരു പരിധിയുണ്ട് അതിനാൽ ടെർമിനേറ്റുകളുടെ എണ്ണം ആ പരമാവധി മൂല്യ പരിധിക്കുള്ളിലായിരിക്കണം തീർച്ചയായും ഓരോ പാർട്ടീഷനും ഒരു ചിപ്പിനോ ബോർഡിനോ യോജിച്ചതായിരിക്കണം അതിനാൽ ഇത് വലുപ്പത്തിന്റെയോ പ്രദേശത്തിന്റെയോ അടിസ്ഥാനത്തിൽ മാക്സിമം അപ്പർ ബൌണ്ട് ഉണ്ടായിരിക്കും കൂടാതെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള മൊത്തം പാർട്ടീഷനുകളുടെ എണ്ണവും വ്യക്തമാക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത്രയും ചിപ്പുകൾ ഉണ്ടായിരിക്കാം അതിൽ നിങ്ങൾക്ക് ഒരു മുഴുവൻ ഡിസൈനും വിഭജിക്കാം ഈ ബോർഡുകളുടെ എണ്ണം അതിൽ കൂടുതലാകില്ല അതിനാൽ ഇവയാണ് നിയന്ത്രണങ്ങൾ പാർട്ടീഷനിങ് ടെക്നിക്കുകളെക്കുറിച്ച് പറയുമ്പോൾ വിശാലമായി ടെക്നിക്കുകളെ കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഇറ്ററേറ്റിവ് ഇമ്പ്രൂവ്മെന്റ് എന്ന് വിളിക്കാം കൺസ്ട്രക്റ്റീവ് പ്ലെയ്സ്മെന്റ് എന്നാൽ നമ്മൾ തുടങ്ങുന്നത് ഒരു ശൂന്യമായ പാർട്ടീഷനിൽ ഒന്നുമല്ല പാർട്ടീഷനുകൾ വളരാൻ അനുവദിക്കുന്ന വിധത്തിൽ വലുതും വലുതുമായ പാർട്ടീഷനുകൾ സൃഷ്ടിക്കാൻ നമ്മൾ ബ്ലോക്കുകളോ മൊഡ്യൂളുകളോ പതുക്കെ ചേർക്കുന്നു എന്നാൽ മറുവശത്ത് ഒരു രണ്ടാം ക്ലാസ് അൽഗോരിതം ഉണ്ട് ഇവയെ ഇറ്ററേറ്റിവ് ഇമ്പ്രൂവ്മെന്റ് എന്ന് വിളിക്കുന്നു ഇവിടെ ഒരു പ്രാരംഭ പാർട്ടീഷനിൽ തുടങ്ങുന്ന ആശയം നമുക്ക് ആരംഭിക്കാൻ ഇതിനകം തന്നെ നിരവധി പാർട്ടീഷനുകൾ ഉണ്ട് ഈ അൽഗോരിതംസിന്റെ ഭാഗമായി ഈ ബ്ലോക്കുകളുടെ കൂട്ടത്തിലും പാർട്ടീഷനിങ്ങിലും ക്രമാനുഗതമായ മാറ്റങ്ങൾ വരുത്തി പാർട്ടീഷനുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നു അതിനാൽ ഈ രീതികളിൽ ചിലത് നമുക്ക് ഓരോന്നായി നോക്കാം റാൻഡം സെലക്ഷൻ വളരെ ലളിതമാണ് നിങ്ങൾക്ക് ഒരു കൂട്ടം നോഡുകൾ ഉണ്ടെന്ന് ഇത് പറയുന്നു അതിനാൽ നിങ്ങൾ ഒരു സമയം റാൻഡം ആയി നോഡുകൾ തിരഞ്ഞെടുക്കുകയും ശരിയായ വലുപ്പം എത്തുന്നതുവരെ നിശ്ചിത വലുപ്പത്തിലുള്ള ക്ലസ്റ്ററുകളായി സ്ഥാപിക്കുകയും ചെയ്യുന്നു എന്താണ് ഇതിന്റെ അര്ഥം ഒരു ക്ലസ്റ്ററിനുള്ളിൽ 10 ബ്ലോക്കുകൾ വരെ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് ഒരു നിബന്ധനയുണ്ടെന്ന് കരുതുക എനിക്ക് ഒരു കൂട്ടം ബ്ലോക്കുകൾ സ്ഥാപിക്കാൻ ഉണ്ടെന്ന് കരുതുക അത്തരം നിരവധി ബ്ലോക്കുകൾ ഉണ്ട് അതിനാൽ ഈ സെറ്റിൽ നിന്ന് ഞാൻ ചെയ്യുന്നത് ഞാൻ റാൻഡമായി ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നു ഞാൻ പ്ലെയ്സ് ചെയ്യുന്നു ഞാൻ റാൻഡമായി മറ്റൊന്ന് തിരഞ്ഞെടുക്കുന്നു ഞാൻ പ്ലെയ്സ് ചെയ്യുന്നു റാൻഡമായി മറ്റൊന്ന് പ്ലെയ്സ് ചെയ്യുന്നു 10 എന്ന ഈ പരിധി എത്തുന്നതുവരെ ഈ രീതിയിൽ ഞാൻ തുടരുന്നു അതിനാൽ ഈ 10 എത്തുമ്പോൾ എന്റെ പാർട്ടീഷൻ P1 പൂർത്തിയായി എന്ന് പറയാം ഇപ്പോൾ ഞാൻ എന്റെ അടുത്ത പാർട്ടീഷൻ P2 ലേക്ക് നീങ്ങുന്നു അതിനാൽ സമാനമായ രീതിയിൽ ഞാൻ വീണ്ടും ബ്ലോക്കുകൾ റാൻഡമായി തിരഞ്ഞെടുക്കുന്നു എന്റെ 10 എന്ന പരിധി വീണ്ടും എത്തുന്നതുവരെ ഞാൻ അവ ഇവിടെ പ്ലെയ്സ് ചെയ്യുന്നു അങ്ങനെ എന്റെ P2 പൂർത്തിയായി അപ്പോൾ ഞാൻ P3 P4 തുടങ്ങിയവയിലേക്ക് നീങ്ങുന്നു അതിനാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ രീതി വളരെ ലളിതവും വ്യക്തവുമാണ് സ്വാഭാവികമായും നമ്മൾ ചെയ്യുന്ന രീതി നിങ്ങൾ അത് പൂർണ്ണമായും റാൻഡമായി ചെയ്തു ബ്ലോക്കുകളുടെ പ്രോപ്പർട്ടിയും അവ ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയും മറ്റും നമ്മൾ നോക്കുന്നില്ല അതിനാൽ സാധാരണയായി ഈ പ്രക്രിയയിൽ സൃഷ്ടിക്കുന്ന പാർട്ടീഷനുകളുടെ ഗുണനിലവാരം അത്ര നല്ലതല്ല അതിനാൽ ആ കാര്യത്തിൽ മെച്ചപ്പെട്ട മറ്റൊരു രീതി നമ്മൾ നോക്കുന്നു അതിനെ ക്ലസ്റ്റർ ഗ്രോത് എന്ന് വിളിക്കുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്ലസ്റ്റർ ഗ്രോത്തിന്റെ രീതിയിൽ നമ്മൾ ഒരു നോഡിൽ നിന്ന് ആരംഭിച്ച് മറ്റ് നോഡുകൾ ചേർത്ത് പാർട്ടീഷനുകൾ ഉണ്ടാക്കുന്നു പക്ഷേ റാൻഡമായി കണക്റ്റിവിറ്റിയെ അടിസ്ഥാനമാക്കിയല്ല നിങ്ങൾ വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന ക്ലസ്റ്ററുകളുടെ എണ്ണം ഒരു ഇൻപുട്ട് പാരാമീറ്ററും ആകാം അതിനാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ അൽഗോരിതത്തിന്റെ രൂപരേഖ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നോഡുകളുടെ ഒരു കൂട്ടം ഉണ്ടെന്ന് പറയാം അതിനെ ക്യാപിറ്റൽ V എന്ന് വിളിക്കാം കൂടാതെ m എന്നത് ഓരോ ക്ലസ്റ്ററിന്റെയും വലുപ്പത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ പാർട്ടീഷനുകളുടെ എണ്ണം സൈസ് ഓഫ് V ഡിവൈഡ് ബൈ m ആയിരിക്കും 1 മുതൽ n വരെ തുല്യമായ ഓരോ പാർട്ടീഷനും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ റിപ്പീറ് ചെയ്യുന്നു അതിനാൽ നമ്മൾ ഒരു വേരിയബിൾ സീഡ് ഈ സെറ്റ് ഓഫ് വെർട്ടെക്സിലെ ഒരു വെർടെക്സ് ആയി ഇനിഷ്യലിസ് ചെയ്യുന്നു മാക്സിമം ഡിഗ്രി V ക്ക് ആയിരിക്കും ഡിഗ്രി എന്നാൽ അത് പരമാവധി മറ്റ് ബ്ലോക്കുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു മറ്റ് ബ്ലോക്കുകളുമായി പരമാവധി ബന്ധിപ്പിച്ചിരിക്കുന്ന ബ്ലോക്ക് നിങ്ങൾ ആ വെർടെക്സ് തിരഞ്ഞെടുത്തു ആ വെർടെക്സ് വിഭജനത്തിനുള്ള എന്റെ ഇനിഷ്യൽ സീഡ് ആണ് ഞാൻ അതിനെ Vi എന്ന് വിളിക്കുന്നു Vi എന്നത് ith വിഭജനത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ ഞാൻ ഇത് തിരഞ്ഞെടുത്തുകഴിഞ്ഞാൽ ഞാൻ ഈ സീഡ് യഥാർത്ഥ വിയിൽ നിന്ന് നീക്കംചെയ്യുന്നു ഞാൻ അത് പുറത്തെടുക്കും ഓരോ ക്ലസ്റ്ററിന്റെയും വലുപ്പം m ആയതിനാൽ ഞാൻ ഈ m മൈനസ് 1 വാസ്തവത്തിൽ j m നേക്കാൾ കുറവാണ് ഈ m മൈനസ് 1 ബാക്കിയുള്ള വെർട്ടിസ്സ് Vi ലേക്ക് ചേർക്കണം അതിനാൽ ഓരോ ഘട്ടത്തിലും ഞാൻ ചെയ്യുന്നത് ഞാൻ പരിശോധിച്ച് ഒരു വെർടെക്സ് കണ്ടെത്തുന്നു ഇത് Vi ൽ ഇതിനകം തന്നെ ഉള്ള വെർടെക്സുമായി പരമാവധി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യും നമ്മൾ V യുമായി യൂണിയൻ ഓഫ് t എടുക്കുന്നു Vയിൽ നിന്ന് നമ്മൾ ഈ t ആവർത്തിച്ച് പുറത്തെടുക്കുന്നു നിങ്ങൾ ഈ പ്രക്രിയ പൂർത്തിയാക്കിയാൽ ഈ V ശൂന്യമായിരിക്കും നമുക്ക് ആവശ്യമുള്ള ക്ലസ്റ്റർ നമുക്ക് ലഭിക്കും അതിനാൽ ക്ലസ്റ്ററുകൾ സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന കണക്റ്റിവിറ്റിയെ ആശ്രയിച്ച് ഇത് വളരെ ലളിതമായ ഒരു രീതിയാണ് കൂടാതെ ക്ലസ്റ്ററുകൾ ഓരോന്നായി ഇറ്ററേറ്റിവ്ലി വളരുന്നു നമുക്ക് കൂടുതൽ പ്രായോഗികമായ ചില രീതികളിലേക്ക് പോകാം നമുക്ക് കൂടുതൽ വഴക്കം ഉണ്ട് എന്ന അർത്ഥത്തിൽ ഇവിടെ ഈ ക്ലാസുകളുടെ രീതികളെ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് എന്ന് വിളിക്കുന്നു അപ്പോൾ അവർ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു കൂട്ടം മൊഡ്യൂളുകളോ വസ്തുക്കളോ പരിഗണിക്കുകയും കണക്റ്റിവിറ്റിയെ ആശ്രയിച്ച് അവയെ ഗ്രൂപ്പുചെയ്യുകയും ചെയ്യുന്നത് ക്ലോസ്നെസ് എന്നാണ് അർത്ഥമാക്കുന്നത് 10 കണക്ഷനുകൾ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു അതിനിടയിൽ 2 ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ആ 2 ബ്ലോക്കുകൾ ഒരുമിച്ച് അടുത്ത് തുടരണമെന്ന് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് ക്ലോസ്നെസ്സിന്റെ മെഷർ ആണ് കൂടുതൽ ദൃഡ്ഡമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്ലോക്കുകൾ പരസ്പരം അടുത്ത് സൂക്ഷിക്കണം എന്നതാണ് അടിസ്ഥാന ആശയം അതിനാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ക്ലസ്റ്റർ ഒരു ഹൈറാർക്കിക്കൽ രീതിയിൽ നമ്മൾ വെക്കുന്നു കണക്റ്റിവിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും അടുത്തുള്ള 2 വസ്തുക്കൾ ആദ്യം ക്ലസ്റ്റർ ചെയ്യപ്പെടുന്നു നമ്മൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ ഈ സ്ഫിയർ ഓഫ് ഒബ്ജെക്ട്സ് മെർജ് ചെയ്യുകയും പിന്നീട് ഒരു സിംഗിൾ ഒബ്ജക്റ്റായി കണക്കാക്കുകയും ചെയ്യും നിങ്ങൾ ഈ പ്രക്രിയ ഒന്നൊന്നായി ആവർത്തിക്കുന്നു എന്റെ ശേഷിക്കുന്ന നെറ്റ്ലിസ്റ്റിൽ ഏറ്റവും അടുത്തുള്ള 2 വെർട്ടിസ്സ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങൾ അവയെ ഒരുമിച്ച് ലയിപ്പിക്കുകയും നിങ്ങൾ ഏത് ക്രമത്തിലാണ് വെർട്ടിസ്സ് മെർജ് ചെയ്യുന്നത് എന്ന വിവരം സൂക്ഷിക്കുകയും ചെയ്യുന്നു കാരണം നിങ്ങൾ ഇത് പിന്നീട് യഥാർത്ഥ പാർട്ടീഷനിങ് ചെയ്യാൻ ഉപയോഗിക്കും അതിനാൽ നിങ്ങൾ ഈ പ്രക്രിയ ആവർത്തിക്കുന്നു തുടർന്ന് ഒരൊറ്റ ക്ലസ്റ്റർ സൃഷ്ടിക്കപ്പെടുകയും ഹൈറാർക്കിക്കൽ ക്ലസ്റ്റർ ട്രീ എന്ന് വിളിക്കപ്പെടുകയും ചെയ്താൽ നിങ്ങൾ നിർത്തുന്നു ഇത് ഒരു ക്ലസ്റ്റർ സൃഷ്ടിക്കാൻ മെർജ് ചെയ്ത ഒബ്ജക്റ്റ് പെയർസിന്റെ സീക്വെൻസിനെ സൂചിപ്പിക്കുന്നു അതിനാൽ ചിത്രീകരിക്കാൻ ഞാൻ ഒരു ഉദാഹരണം കാണിക്കുന്നു ഒരിക്കൽ നിങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടോ അതിലധികമോ ക്ലസ്റ്ററുകളായി ഈ ട്രീ മുറിക്കാൻ കഴിയും ശരി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇതുപോലൊരു ഉദാഹരണം എടുക്കാം ഈ 5 വെർട്ടിസ്സ് ചില ചെറിയ നെറ്റ്ലിസ്റ്റുകളെയോ ചില അടിസ്ഥാന ഘടകങ്ങളെയോ സൂചിപ്പിക്കുന്നു അവ ഗേറ്റുകളാകാം അവ ഗേറ്റുകളുടെ ചെറിയ സെറ്റാകാം ഈ നമ്പറുകൾ അവർ കണക്ഷനുകളുടെ എണ്ണം അല്ലെങ്കിൽ അവരുടെ ക്ലോസ്നെസ് സൂചിപ്പിക്കുന്നു V2 നും V4 നും ഇടയിൽ 9 കണക്ഷനുകൾ ഉണ്ടെന്ന് ഈ 9 സൂചിപ്പിക്കുന്നു ഈ 1 സൂചിപ്പിക്കുന്നത് V2 ഉം V3 ഉം തമ്മിൽ ഒരു ബന്ധം ഉണ്ടെന്നാണ് ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ ഏത് വെർട്ടിസ്സ് പെയർ ആണ് ഏറ്റവും അടുത്തതെന്ന് നിങ്ങൾ കാണും V2 V4 എന്നിവയാണ് ക്ലോസെസ്റ് നിങ്ങൾ ഇവ ആദ്യം ലയിപ്പിക്കുന്നു അതിനാൽ നമ്മൾ ചെയ്യുന്ന ആദ്യപടി ഈ ജോഡിയെ ലയിപ്പിച്ച് V24 എന്ന കോംപോസിറ്റ് വെർടെക്സ് സൃഷ്ടിക്കുന്നു ശേഷിക്കുന്ന ഗ്രാഫിൽ നമ്മൾ ഈ പ്രക്രിയ ആവർത്തിക്കുന്നു ഇതിൽ ഏതാണ് ഏറ്റവും അടുത്തത് 7 V1 V24 ഇവ രണ്ടും മെർജ്ഏചെയ്യുന്നു അതിനാൽ ഞങ്ങൾക്ക് V241 ലഭിക്കും അതിനാൽ ശേഷിക്കുന്ന ഗ്രാഫിൽ നിങ്ങൾ V1 V24 എന്നിവ ലയിപ്പിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് V241 ലഭിക്കും അതിനാൽ V24 നും V3 നും ഇടയിലുള്ള h ന്റെ ഭാരം ഇത് 1 56 ആയിരിക്കും കാരണം നമ്മൾ ഈ 2 ലയിപ്പിച്ചതിനാൽ ഈ രണ്ടും തമ്മിലുള്ള കണക്ഷനുകളുടെ എണ്ണം ഇപ്പോൾ 6 അതിനാൽ അടുത്തത് 6 ആണ് അടുത്തത് 4 അവസാനമായി ഇത് ചെയ്യുക അതിനാൽ നിങ്ങൾ ഈ ശൃംഖല 2 4 1 6 3 3 5 എന്നിങ്ങനെ ലയിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ ഈ ശ്രേണി ഓർക്കുകയും ക്ലസ്റ്ററിംഗ് ട്രീ എന്ന് പറയാവുന്ന എന്തെങ്കിലും സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതിനാൽ തുടക്കത്തിൽ നിങ്ങൾ V2 V4 എന്നിവ ലയിപ്പിച്ച് V24 നോഡ് ലഭിക്കും V24 ഉം V1 ഉം ലയിപ്പിക്കുക ഈ രീതിയിൽ ഇത് നേടുക അതിനാൽ ഈ ട്രീ നമുക്ക് ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രീ കട്ട് ചെയ്യാം ഏത് എഡ്ജും നിങ്ങൾക്ക് കട്ട് ചെയ്യാം അത് 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെടും കാരണം ഒരു ട്രീ ഒരു ഗ്രാഫ് ആണെന്ന് നിങ്ങൾക്കറിയാം അവിടെ 2 വെർടിസിസിന് ഇടയിൽ ഒരു യൂണിക് പാത്ത് ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും അറ്റം മുറിക്കുകയാണെങ്കിൽ അത് അതിനെ 2 ഭാഗങ്ങളായി വിഭജിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ട്രീ ഉണ്ടെന്ന് കരുതുക നിങ്ങൾക്ക് ഇതുപോലൊരു ട്രീ ഉണ്ടെന്ന് പറയാം ഇത് ഞാൻ നൽകുന്ന ഒരു ഉദാഹരണം മാത്രമാണ് എനിക്ക് ഇതുപോലൊരു ട്രീ ഉണ്ടെന്ന് കരുതുക അതിനാൽ ഇതുപോലുള്ള ഒരു ട്രീ ഉണ്ടെങ്കിൽ അതിനെ 3 ഭാഗങ്ങളായി വിഭജിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അതിനാൽ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും ഞാൻ ഇവിടെ ഒരു കട്ട് ഉണ്ടാക്കാം ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും ട്രീ 2 ഭാഗങ്ങളായി വിഭജിക്കും അതിനാൽ ഒന്ന് ഈ ഭാഗവും മറ്റൊന്ന് ഈ ഭാഗവും ആയിരിക്കും അടുത്തതായി എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് മറ്റൊരു കട്ട് ചെയ്യാം ഇവിടെ ഇത് ഇതുപോലുള്ള ഒരു ക്ലസ്റ്ററായി ഇത് ബ്രേക്ക് ചെയ്യും അതിനാൽ നിങ്ങൾ ഈ മരത്തിൽ ഒരു അറ്റം മുറിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരു പാർട്ടീഷൻ അല്ലെങ്കിൽ ക്ലസ്റ്റർ ജനറേറ്റ് ചെയ്യപ്പെടും അതിനാൽ ഇവിടെയും ഈ ഉദാഹരണത്തിൽ നമ്മൾ 2 ഭാഗങ്ങളായി വിഭജിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക നമ്മൾ ഇവിടെ ഒരു കട്ട് ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് V2 V4 V1 എന്നിവ ഉൾപ്പെടുന്ന ഒരു ക്ലസ്റ്റർ ലഭിക്കും V3 V5 എന്നിവ ഉൾപ്പെടുന്ന മറ്റൊരു ക്ലസ്റ്റർ ഇപ്പോൾ ഈ ക്ലസ്റ്ററുകൾ കൂടുതൽ ശക്തമായി കണക്റ്റുചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ അവയെ ഒരുമിച്ച് നിലനിർത്താൻ ശ്രമിക്കുന്നു അതിനാൽ ഇതാണ് അടിസ്ഥാന ആശയം ഇപ്പോൾ അടുത്തതായി നമുക്ക് വളരെ പ്രധാനപ്പെട്ട അൽഗോരിതങ്ങളുടെ ഒരു ക്ലാസ്സിലേക്ക് പോകാം ഇതിനെ മിൻ കട്ട് അൽഗോരിതം എന്ന് വിളിക്കുന്നു ഞാൻ ഈ അവസ്ഥ മനസ്സിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഞാൻ വിഭജനം നടത്താൻ ശ്രമിക്കുന്നു പാർട്ടീഷനിലുടനീളം പോകുന്നത് കുറയ്ക്കുന്നു അതാണ് അർഥം എനിക്ക് ഇതുപോലൊരു നെറ്റ്ലിസ്റ്റ് ഉണ്ടെന്ന് കരുതുക ഞാൻ ഇതുപോലൊരു വിഭജനം നടത്തുന്നു എത്ര സിഗ്നൽ ലൈനുകൾ കടന്നുപോകുന്നുവെന്ന് ഞാൻ കാണണം ഇത് കട്ട് ആയി നിർവചിക്കപ്പെടുന്നു അതിനാൽ ഒരു ഗുഡ് പാർട്ടീഷൻ എന്ന് വിളിക്കപ്പെടുന്ന കട്ടിന്റെ ഈ വലുപ്പം ഞാൻ കുറയ്ക്കണം അതിനാൽ ഞാൻ ഇവിടെ കാണിക്കുന്ന ഈ കെർണിഗൻ ലിൻസ് അൽഗോരിതം ഇത് അടിസ്ഥാനപരമായി ഇതുപോലെ ചെയ്യുന്നു ഇനിഷ്യൽ നെറ്റ്ലിസ്റ്റ് 2 ഉപവിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഇത് ഒരു ബൈസെക്ഷൻ അൽഗോരിതം ആണ് അത് തുല്യ വലുപ്പത്തിലുള്ളതായിരിക്കും ഈ രീതി വളരെ ലളിതമാണ് ഇവിടെ നമ്മൾ ഒരു പാർട്ടീഷൻ ആരംഭിക്കുന്നു ഇനിഷ്യൽ പാർട്ടീഷൻ ആരംഭിച്ച് കട്ട് സെറ്റുകൾ മെച്ചപ്പെടുന്നതുവരെ നമ്മൾ ഇറ്ററേഷൻ ആവർത്തിക്കുന്നു അതിനാൽ ഞാൻ ചെയ്യുന്നതെന്തെന്നാൽ ഓരോ പാർട്ടീഷനുകളിൽ നിന്നും വെർട്ടെക്സ് പെയർസ് നമ്മൾ കണ്ടെത്തുന്നു അവയുടെ കൈമാറ്റം കട്ട് സൈസിൽ വലിയ കുറവുണ്ടാക്കും നിങ്ങളുടെ പക്കൽ 2 സെറ്റുകൾ ലഭ്യമായിരിക്കുന്നതുപോലെ 2 സെറ്റ് വെർട്ടീസുകൾ ആണ് നിങ്ങളുടെ ഇനിഷ്യൽ പാർട്ടീഷൻ ഈ സെറ്റിൽ നിന്ന് ഒരു വെർട്ടെക്സ് തിരഞ്ഞെടുക്കുക ആ സെറ്റിൽ നിന്ന് ഒരു വെർട്ടെക്സ് നിങ്ങൾ അവ കൈമാറ്റം ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം പുരോഗതി ലഭിക്കുന്നുവെന്ന് കാണാൻ ശ്രമിക്കുക ഓരോ ജോഡി വെർടിസിസിനും നിങ്ങൾ ഈ പ്രക്രിയ ആവർത്തിക്കുന്നു കൂടാതെ ഏത് ജോഡി നിങ്ങൾക്ക് മികച്ച ആനുകൂല്യം നൽകുന്നുവെന്നും കൈമാറ്റം ചെയ്യാൻ നിങ്ങൾ ആ വെർട്ടെക്സ് പെയർസ് തിരഞ്ഞെടുക്കുന്നുവെന്നും ഓരോ ഘട്ടത്തിലും കാണുക അതിനാൽ ആ വെർട്ടെക്സ് പെയർ കണ്ടെത്തിയാൽ നിങ്ങൾ ഈ വെർട്ടെക്സ് ലോക്ക് ചെയ്യുന്നു ലോക്ക് എന്നാൽ ആ വെർടെക്സ് ഭാവിയിൽ കൂടുതൽ കൈമാറ്റങ്ങളിൽ പങ്കെടുക്കില്ല എന്നാൽ പെയർസ് ഓഫ് വെർട്ടിസ്സ് കൈമാറുന്നതിലൂടെ യാതൊരു മെച്ചപ്പെടുത്തലുകളും സാധ്യമല്ലെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ചെലവിൽ ഏറ്റവും ചെറിയ വർദ്ധനവ് നൽകുന്ന ഒരു വെർടെക്സ് പെയർ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു അതിനാൽ ഇവിടെയും ചിലവ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കുന്നു നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു മികച്ച പരിഹാരം ലഭിക്കും എന്ന പ്രതീക്ഷയോടെ അതിനാൽ ഇത് ലോക്കൽ മിനിമ എന്ന് വിളിക്കപ്പെടുന്നവ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനുള്ള ഒരു സാധാരണ രീതിയാണ് ഒരു സൊല്യൂഷൻ സ്പേസ് ഉണ്ടാകാം അല്ലെങ്കിൽ ഒന്നിലധികം മിനിമം പോയിന്റുകൾ ഉണ്ടാകാം ലോക്കൽ മിനിമയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു കാരണം ഇതിലും മികച്ച മറ്റൊരു മിനിമം ഉണ്ടായിരിക്കാം അതിനാൽ ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു മികച്ച പരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾ മോശമായ പരിഹാരം സ്വീകരിക്കുന്നു എന്നാൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ട ഏറ്റവും മികച്ച പരിഹാരം എന്താണെന്ന് ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഓർക്കുന്നു എനിക്ക് ഇതുപോലുള്ള ഒരു സർക്യൂട്ട് ഉണ്ട് അത് 2 ഭാഗങ്ങളായി വിഭജിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ ഈ ഗേറ്റുകളിൽ നിന്ന് ഒരു ഗ്രാഫ് നിർമ്മിക്കുന്നു നേർത്ത അരികുകൾക്ക് 1 ഭാരവും കട്ടിയുള്ള അരികുകൾക്ക് 0 5 ഭാരവുമുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു അതിനാൽ ഈ ഭാരം കുറവായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന അനുമാനമാണെന്ന് നമുക്ക് പറയാം ഇതുപോലുള്ള ഒരു ഇനിഷ്യൽ പാർട്ടീഷൻ നമുക്ക് ആരംഭിക്കാം അതിനാൽ ഇനിഷ്യൽ പാർട്ടീഷനായി നിങ്ങൾ വെട്ടിക്കളഞ്ഞ വെർടെക്സുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് 1 2 3 4 തിൻ എഡ്ജേസും 3 തിക്ക് എഡ്ജേസും ആണ് അതിനാൽ ചെലവ് 4 പ്ലസ് 1 5 5 5 ആയിരിക്കും നിങ്ങൾ ജോഡികളുടെ അടിസ്ഥാനത്തിൽ a യും c യും എക്സ്ചേഞ്ച് ചെയ്യാം a f a g a h എന്നിട്ട് b c b f b g b h എന്നിവ കൈമാറാൻ ശ്രമിക്കുക നിങ്ങൾ c യും d യും കൈമാറുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ബെനെഫിറ് ലഭിക്കുന്നു അതിനാൽ ഈ ഘട്ടം ഇവിടെ കാണിച്ചിരിക്കുന്നു നിങ്ങൾ c യും d യും കൈമാറുകയാണെങ്കിൽ c ഇവിടെ കൊണ്ടുവരികയും d അവിടെ കൊണ്ടുവരികയും ചെയ്യുന്നു കൂടാതെ ഈ 2 വെർട്ടിസ്സ് ഷെയ്ഡ്ഡ് ആയി കാണിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നു ചെലവ് 1 2 3 4 നേർത്ത അരികുകളും ഒരു കട്ടിയുള്ള അരികുകളും കുറഞ്ഞു 5 ആണ് അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ കൈമാറുന്ന വെർട്ടിസസ് g ഉം b ഉം ആണ് ഇവിടെ കൊണ്ടുവരിക കാരണം ഇവിടെ നിങ്ങൾ വീണ്ടും ജോഡി പരിശോധിക്കുക അവരുടെ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് പരമാവധി ആനുകൂല്യം നൽകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ ചിലവ് വർദ്ധിക്കും അതിനാൽ ഇത് gb ആണ് അതിനാൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 2 3 4 5 1 2 3 4 5 6 ലഭിക്കുമെന്ന് നിങ്ങൾ കാണും അതിനാൽ ചെലവ് 6 ആയിരിക്കും അതിനാൽ സമാനമായ രീതിയിൽ നിങ്ങൾ തുടരുക അതിനാൽ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ഈ f കൈമാറ്റം ചെയ്യുന്നു നിങ്ങൾക്കിത് ഈ f കൈമാറുകയും ഇവിടെ കൊണ്ടുവരികയും ചെയ്യുന്നു അതിനാൽ ചെലവ് വീണ്ടും വർദ്ധിക്കുന്നു അവസാന ഘട്ടത്തിൽ നിങ്ങൾ ബാക്കിയുള്ള 2 കൈമാറുന്നു നിങ്ങൾക്ക് ഇത് അന്തിമമായി ലഭിക്കും ഇപ്പോൾ ഈ പ്രക്രിയയിൽ ഞങ്ങൾ അത് കാണും ഈ ചെലവ് നിങ്ങൾ ഇതുവരെ കണ്ട ഏറ്റവും കുറഞ്ഞ നിരക്കാണ് അതിനാൽ നിങ്ങൾ ഇത് ഒരു പാർട്ടീഷനിൽ a b c e എഴുതിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് നിങ്ങളുടെ അന്തിമ പാർട്ടീഷനായി a b c e മറ്റൊന്നിൽ മറ്റൊന്നിൽ പ്രഖ്യാപിക്കുന്നു അതിനാൽ ഇതാണ് അടിസ്ഥാനപരമായി കെർണിഗൻ ലിൻ ബൈപാർട്ടീഷനിംഗ് അൽഗോരിതം ഈ അൽഗോരിതത്തിന്റെ പോരായ്മ ഇത് ഹൈപ്പർ ഗ്രാഫിന് നേരിട്ട് ബാധകമല്ല എന്നതാണ് ഹൈപ്പർ ഗ്രാഫ് എന്നാൽ ഒന്നിലധികം ബന്ധിപ്പിച്ചിട്ടുള്ള 2 ലധികം നോഡുകൾ ഉണ്ട് ഇതിനെ ഹൈപ്പർ എഡ്ജ് എന്ന് വിളിക്കുന്നു അവിടെ 3 വെർട്ടിസസിനെ ബന്ധിപ്പിക്കുന്ന ഒരു അരികുണ്ട് അതിനാൽ കെർണിഗൻ ലിൻ അൽഗോരിതം ഈ ഹൈപ്പർ ഗ്രാഫ് നേരിട്ട് പരിഗണിക്കില്ല ഇത് ഒരു പോരായ്മയാണ് കൂടാതെ അനിയന്ത്രിതമായ തൂക്കമുള്ള ഗ്രാഫ് കൈകാര്യം ചെയ്യാൻ അതിന് കഴിയില്ല എന്നിരുന്നാലും നമ്മൾ കണ്ട ഉദാഹരണത്തിന് ഭാരം ഉണ്ട് അതിനാൽ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും പക്ഷേ കണക്കുകൂട്ടൽ കുറച്ചുകൂടി സങ്കീർണ്ണമായിരിക്കും പാർട്ടീഷൻ വലുപ്പങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം ടൈം കോംപ്ലക്സിറ്റി നോഡുകളുടെ എണ്ണത്തിൽ ഉയർന്നതാണ് മാക്സിമം n by 2 n2 പെയർ സെലക്ട് ചെയ്യാനുള്ള കോംപ്ലക്സിറ്റി order n square O ആണ് അതിനാൽ ഏകദേശം ഇത് n cube O ആണ് തുല്യ വലുപ്പത്തിലുള്ള പാർട്ടീഷനുകൾ ബാലൻസ്ഡ് ആയി കണക്കാക്കുന്നു ഇപ്പോൾ ഈ കെർണിഗൻ ലിൻ അൽഗോരിതം പല തരത്തിൽ വിപുലീകരിക്കാൻ കഴിയും ഒന്നാമതായി നിങ്ങൾക്ക് അസമമായ ബ്ലോക്ക് വലുപ്പങ്ങൾ പരിഗണിക്കാം എനിക്ക് 2n വെർട്ടിസസുള്ള ഒരു ഗ്രാഫ് ഉണ്ടെന്ന് കരുതുക പക്ഷേ എനിക്ക് അതിനെ 2 ഉപ ഗ്രാഫുകളായി വിഭജിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ n n എന്നിവ തുല്യമല്ല n1 n2 അല്ലെങ്കിൽ n1 n2 എന്നിവ തുല്യമല്ല അതിനാൽ ഇത് ഇതുപോലെയാണ് അതിനെ ഒരു വലിയ ഭാഗമായി വിഭജിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ n1 വെർട്ടിസ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം മറ്റൊരു പാർട്ടീഷൻ ചെറുതായിരിക്കും ഇവിടെ n2 വെർട്ടിസ്സ് ഉണ്ടാകും അതിനാൽ ഇവിടെ നമ്മൾ സമാനമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാൽ ഇവിടെ n1 ഉം n2 ഉം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ഓരോ ഘട്ടത്തിലും നമുക്ക് പരമാവധി എക്സ്ചേഞ്ചുകളുടെ പരമാവധി എണ്ണം ഇവിടെ n2 മാത്രമായിരിക്കും കാരണം n2 ചെറുതാണ് n2 ന് ശേഷം ഈ n2 നോഡുകളെല്ലാം ലോക്ക് ചെയ്യപ്പെടും അതിനാൽ ഇത് ഈ n1 n2 എന്നിവയുടെ ഏറ്റവും കുറഞ്ഞതായിരിക്കും N2 ചെറുതായതിനാൽ അത് n2 ആയിരിക്കും അതിനാൽ ഇവിടെ നിങ്ങൾ കാണുന്നു അതിനാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നോഡിനെ കുറഞ്ഞത് 2 ഉപവിഭാഗങ്ങളായി വിഭജിക്കുന്നു കുറഞ്ഞത് n1 n2 പരമാവധി n1 n2 വെർട്ടിസസുകൾ അടങ്ങിയിരിക്കുന്നു ഓരോ ഘട്ടത്തിലും ഞാൻ പറയുന്നത് ഇതാണ് വെർട്ടക്സ് എക്സ്ചേഞ്ചുകളുടെ എണ്ണം കുറഞ്ഞത് n1 n2 ആയി പരിമിതപ്പെടുത്തുന്നു നിങ്ങൾ ഒരു മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് ഈ അസമമായ ബ്ലോക്ക് വലുപ്പങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ലഭ്യമായ മറ്റൊരു വിപുലീകരണം അസമമായ വലിപ്പത്തിലുള്ള ഘടകങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതുവരെയുള്ളതുപോലെ ഗ്രാഫിലെ എല്ലാ ശീർഷകങ്ങളും സമാനമാണെന്നും അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നിങ്ങൾ പരസ്പരം ലംബങ്ങൾ കൈമാറുന്നുവെന്നും നമ്മൾ അനുമാനിച്ചിരുന്നു അതിനാൽ അവരുടെ വില ഒന്നായിരിക്കും അതിനാൽ നിങ്ങൾ ഏത് ജോഡി കൈമാറ്റം ചെയ്യുന്നു എന്നാൽ പൊതുവെ ചില ശീർഷകങ്ങൾക്ക് ഒരൊറ്റ ഗേറ്റ് സൂചിപ്പിക്കാൻ കഴിയില്ല പക്ഷേ 3 ഗേറ്റുകളുടെയോ 4 ഗേറ്റുകളുടെയോ ഒരു ശേഖരം ആകാം അതിനാൽ ഓരോ ലംബങ്ങളുടെയും വലുപ്പങ്ങൾ പൊതുവെ വ്യത്യസ്തമായിരിക്കും അതിനാൽ ഈ രണ്ടാമത്തെ വ്യതിയാനത്തിൽ നിങ്ങൾ അസമമായ വലിപ്പത്തിലുള്ള ഘടകങ്ങൾ പരിഗണിക്കുന്നു ഇവിടെ അനുമാനം ഇതുപോലെയാണ് ഏറ്റവും ചെറിയ മൂലകത്തിന് യൂണിറ്റ് വലുപ്പമുണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഒരു വലുപ്പത്തിന്റെ ഓരോ ഘടകങ്ങളും നിങ്ങൾ പൂർണ്ണമായും ബന്ധിപ്പിച്ചിരിക്കുന്ന s വെർട്ടിസസ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു അനന്തമായ ഭാരത്തിന്റെ അരികുകളുള്ള ഒരു സ്ലിക്ക് എന്നാണ് ഇതിനെ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വിശദീകരിക്കുകയാണ് എനിക്ക് ഇതുപോലൊരു ഗ്രാഫ് ഉണ്ടെന്ന് കരുതുക നമുക്ക് ഒരു ചെറിയ ഉദാഹരണം എടുക്കാം എന്ന് പറയാം ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു 3 വെർട്ടിസസ് ഇതുപോലുള്ള ഒരു ഗ്രാഫ് ഇപ്പോൾ ഈ നോഡുകൾ ഇതിന് തുല്യമല്ല ഇതിന്റെ ഭാരം 3 ആണ് ഇതിന്റെ ഭാരം 2 ആണ് ഇതിന്റെ ഭാരം 1 ആണ് നമുക്ക് പറയാം ഇത് എന്താണ് അർത്ഥമാക്കുന്നത് 1 ഇത് അർത്ഥമാക്കുന്നത് ഇത് ഒരു യൂണിറ്റ് എഡ്ജ് ആണ് അതിൽ 1 ഗേറ്റ് അടങ്ങിയിരിക്കുന്നു ഇതിനർത്ഥം നിങ്ങൾ ഇത് 2 വെർട്ടിസസ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു എന്നാണ് 3 എന്നതിനർത്ഥം നിങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന 3 വെർട്ടിസസ് ഉപയോഗിച്ച് അത് മാറ്റിസ്ഥാപിക്കുക എന്നാണ് ഈ അരികുകളുടെ ഈ ഭാരം വളരെ വലുതായിരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ വളരെ വലുത് എടുക്കുന്നത് കാരണം അവർ എപ്പോഴും ഒരുമിച്ചായിരിക്കും അവർ എപ്പോഴും ഒരുമിച്ചായിരിക്കും അതിനാൽ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പരിഷ്ക്കരിച്ച ഗ്രാഫ് സൃഷ്ടിക്കുന്നു ഇവിടെ നമുക്ക് പറയാം ഇത് വെറും 3 കൊണ്ട് മാറ്റിയാൽ ഇത് 2 കൊണ്ട് മാറ്റിയാൽ ഇതും ഇതുമായി ബന്ധിപ്പിക്കും ഇത് ഇതുമായി ബന്ധിപ്പിക്കും ഇതും ഇതുമായി ബന്ധിപ്പിക്കും ഇത് ഇതുമായി ബന്ധിപ്പിക്കും ഇതും ഇതുമായി ബന്ധിപ്പിക്കും ഇതുപോലെ നിങ്ങൾ അത്തരം എല്ലാ കണക്ഷനുകളും ഉണ്ടാക്കുന്നു നിങ്ങൾ അത്തരം എല്ലാ കണക്ഷനുകളും ഉണ്ടാക്കുകയും നിങ്ങൾ ഒരു പുതിയ ഗ്രാഫ് സൃഷ്ടിക്കുകയും ഈ K L അല്ലെങ്കിൽ Kernighan Lin അൽഗോരിതം വീണ്ടും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ അനന്തമായ അഗ്ര ജോടികൾ അവ എല്ലായ്പ്പോഴും ഒരുമിച്ച് നിൽക്കും അതായത് ഉയർന്ന വെയിറ്റേജ് പ്രതിനിധീകരിക്കുന്ന ക്ലസ്റ്ററുകൾ അവ എല്ലായ്പ്പോഴും ഒറ്റ ക്ലസ്റ്ററുകളായി തുടരും അതിനാൽ നിങ്ങൾക്ക് വരുത്താൻ കഴിയുന്ന ഒരു മാറ്റമാണിത് തീർച്ചയായും ഇത് മറ്റൊരു പ്രധാന കാര്യമാണ് നമ്മൾ പിന്നീട് ചർച്ചചെയ്യും ഈ വിഭജനത്തിലൂടെ പ്രകടനത്തിലേക്കുള്ള ശ്രദ്ധയോടെ നമുക്ക് നിർവഹിക്കാനും കഴിയും ബോർഡ് ഡിലെ ചിപ്പ് കാലതാമസത്തേക്കാൾ വളരെ വലുതാണെന്ന് ഞാൻ ഇതിനകം കണ്ടതിനാൽ സാധാരണയായി ഒരു ചിപ്പ് ഡിലെക്ക് നാനോ സെക്കന്റുകൾ അല്ലെങ്കിൽ നാനോ സെക്കന്റുകളുടെ അംശം ഉണ്ടാകാം എന്നാൽ കപ്പാസിറ്റീവ് റെസിസ്റ്റീവ് ഇഫക്റ്റുകൾ കാരണം ചിപ്സിലെ മില്ലീസെക്കൻഡുകൾ വരെ വലുതായിരിക്കും അതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രിട്ടിക്കൽ പാത്ത് പലതവണ മുറിഞ്ഞാൽ ഡിലെ വളരെയധികം ഉയർന്നതായിരിക്കും അതിനാൽ ഉയർന്ന പ്രവർത്തന സംവിധാനങ്ങൾക്കായി നിങ്ങളുടെ പാർട്ടീഷനിങ് ഗോൾസ് വ്യത്യസ്തമായിരിക്കും കട്ട് വലുപ്പം കുറയ്ക്കുന്നത് തീർച്ചയായും അതെ ക്രിട്ടിക്കൽ പാത്തിലെ ഡിലെ നിങ്ങൾ കുറയ്ക്കണം അതുവഴി ടൈമിംഗ് കോൺസ്ട്രയിന്റ്സ് തൃപ്തിപ്പെടുത്തണം അതിനാൽ നമ്മൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു അടുത്ത പ്രഭാഷണത്തിൽ ഫ്ലോർ പ്ലാനിങ്ങിനെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച തുടരും